അതിനാൽ ഇത് ഈ കോഴ്സിന്റെ അവസാന ഭാഗമാണ് ഇപ്പോൾ DC മോട്ടോറുകളുടെ വേഗത നിയന്ത്രണം യഥാർത്ഥത്തിൽ കാര്യങ്ങൾ വളരെ ലളിതമാണെന്ന് മനസിലാക്കുക അതിനാൽ ഉദാഹരണത്തിന് ബാക്ക് Emf ∅ Z n60 PA എവിടെയോ ഞാൻ N ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ബ്രാക്കറ്റിൽ ഇത് ചെറിയ n N എന്ന് എഴുതിയിരിക്കുന്നതിനാൽ ആശയക്കുഴപ്പമില്ല Eb യഥാർത്ഥത്തിൽ Emf Eb V അർമേച്ചർ സർക്യൂട്ടിലെ ഡ്രോപ്പ് അതാണ് അർമേച്ചർ സർക്യൂട്ടിലെ വോൾട്ടേജ് ഡ്രോപ്പ് അതായത് ∅ ra ഇതിനായി ഒരു DC മോട്ടോറിന്റെ വേഗത ഇനിപ്പറയുന്ന രീതികളിലൂടെ മാറ്റാൻ കഴിയുമെന്ന് കാണാം ഒന്ന് V എന്ന മോട്ടോറിന്റെ ആർമേച്ചറിൽ പ്രയോഗിക്കുന്ന വൈദ്യുതിയുടെ ചാലകശക്തി വ്യത്യാസപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രയോഗിച്ച വൈദ്യുതിയുടെ ചാലകശക്തി വ്യത്യാസപ്പെടുന്നു മറ്റൊരു കാര്യം അർമേച്ചറിലേക്ക് പ്രയോഗിച്ച വൈദ്യുതിയുടെ ചാലകശക്തി കുറയ്ക്കുന്നതിന് അമ്മീറ്റർ സർക്യൂട്ടിൽ പ്രതിരോധം ചേർക്കുന്നതിലൂടെ അർമേച്ചറിലേ വൈദ്യുതി വ്യത്യാസപ്പെടുന്നു മൂന്നാമത്തേത് ഫീൽഡ് വൈദ്യുതി മാറ്റിക്കൊണ്ട് ഫീൽഡ് ഫ്ലക്സ് വ്യത്യാസപ്പെടുത്തുക DC മോട്ടോറിന്റെ വേഗത മാറ്റുന്നതിനുള്ള മൂന്ന് വ്യത്യസ്ത വഴികൾ ഇവയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നോക്കിയാൽ ഒരു DC ഷണ്ട് മോട്ടോറിന്റെ വേഗത നിയന്ത്രണം ഒരു DC ഷണ്ട് മോട്ടോറിന്റെ വേഗത നിയന്ത്രണത്തിന്റെ ഏറ്റവും സാധാരണമായ രീതി ഫീൽഡ് നിയന്ത്രണ പ്രതിരോധം ക്രമീകരിച്ചുകൊണ്ട് അതിന്റെ ഫീൽഡ് ശക്തി നിയന്ത്രിക്കുമ്പോഴാണ് അതിനാൽ യഥാർത്ഥത്തിൽ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഫീൽഡ് ചായവുള്ളതും ഒരു അധിക പ്രതിരോധം ബന്ധിപ്പിച്ചിട്ടുള്ളതുമാണ് ഇത് ഒരു വേരിയബിൾ പ്രതിരോധം ആണ് യഥാർത്ഥത്തിൽ ഈ പ്രതിരോധം വ്യത്യാസപ്പെട്ടാൽ ഫീൽഡ് കറന്റ് എന്ന് വിളിക്കുന്നത് വ്യത്യാസപ്പെടും ഉദാഹരണത്തിന് ഈ പ്രതിരോധം Rf ആണെന്ന് കരുതുക അതിനാൽ ഈ ഫീൽഡ് പ്രതിരോധം Rf ആണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഫീൽഡ് വൈദ്യുതി എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ∅ VRf Rf ആയിരിക്കും ഈ ആർഎഫ് എന്തായാലും നിശ്ചിതം ആയിരിക്കും ഇതാണ് ഈ ഫയൽ ചെയ്ത വൈൻഡിംഗിന്റെ സർക്യൂട്ടിന്റെ ഫീൽഡ് റെസിസ്റ്റൻസ് യഥാർത്ഥത്തിൽ ആ വേരിയബിൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് Rf ആണ് അതിനാൽ യഥാർത്ഥത്തിൽ ഈ പ്രതിരോധം സ്വാഭാവികമായി വ്യത്യാസപ്പെടാൻ കഴിയുമെങ്കിൽ ഫീൽഡ് വൈദ്യുതി കുറയും കാരണം യഥാർത്ഥത്തിൽ പ്രതിരോധം കൂട്ടുക ആണെങ്കിൽ ഫീൽഡ് വൈദ്യുതി കുറയും അതിനാൽ അതിനർത്ഥം ഫ്ലക്സ് ഫയൽ ചെയ്ത വൈദ്യുതി പ്രവാഹത്തിന് ആനുപാതികമാണ് അതിനാൽ സ്വാഭാവികമായും ആ ഫ്ലക്സും കുറയും എന്നാൽ ആ സാഹചര്യത്തിൽ നമുക് അതിന്റെ സവിശേഷതകൾ കാണാം ഫീൽഡ് വൈദ്യുതി കുറയുകയാണെങ്കിൽ വേഗത എങ്ങനെയാണ് വർധിക്കുന്നത് എന്ന് ഫീൽഡ് വൈദ്യുതി വർദ്ധിച്ചാൽ ഫ്ലക്സും ആ സാഹചര്യത്തിൽ വർദ്ധിക്കുന്നു ആ സാഹചര്യത്തിൽ നേരെ വിപരീതം സംഭവിക്കും അതിനാൽ ഫീൽഡ് അടിസ്ഥാനപരമായി ഫീൽഡ് നിലവിലെ ∅ യഥാർത്ഥത്തിൽ ∅ ആനുപാതികമായി ഫീൽഡ് ∅ അതിനാൽ ഇത് എല്ലായ്പ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തു സംഭവിക്കും സർക്യൂട്ട് കണക്ഷനുകളും ഫ്ലക്സ് തമ്മിലുള്ള ബന്ധവും ∅ ആകാം അല്ലെങ്കിൽ ഇത് ∅ ആകാം കാരണം ഫ്ലക്സ് ∅ ക്ക് ആനുപാതികമാണ് ഈ രീതിയിൽ ഒരു വേരിയബിൾ പ്രതിരോധം ഷണ്ട് ഫീൽഡുമായി ഒരേ ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതാണ് ഈ രേഖാചിത്രത്തിൽ കാണുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് രേഖാചിത്രം അതിനാൽ ഈ വേഗത യഥാർത്ഥത്തിൽ ഫ്ലക്സിന് വിപരീത അനുപാതമാണ് പ്രയോഗിച്ച വോൾട്ടേജ് മാറ്റാത്തപ്പോൾ back EMF സ്ഥിരമായി കണക്കാക്കാം അതായത് ഈ സമവാക്യം Eb back Emf K K ∅ n എന്ന സമവാക്യം നമുക്കറിയാം അതിനാൽ K സ്ഥിരാങ്കമാണ് ഇത് ഫ്ലക്സ് ഇത് I ന് ആനുപാതികമാണ് ആ ഫീൽഡ് കറന്റ് അതിനാൽ ഇവിടെ ഇത് Eb ഈ പദപ്രയോഗവും Eb K ∅ n ആണെങ്കിൽ അതിനാൽ പ്രയോഗിച്ച വോൾട്ടേജ് മാറ്റാത്തപ്പോൾ EMF സ്ഥിരതയുള്ളതായി കണക്കാക്കുമ്പോൾ വേഗത ഫ്ലക്സിന് വിപരീത അനുപാതമാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു അതിനർത്ഥം Eb അതായത് Emf K ∅ n തിരികെ വരുന്നു അതിനാൽ യഥാർത്ഥത്തിൽ പ്രയോഗിച്ച വോൾട്ടേജ് സ്ഥിരമാണെങ്കിൽ ഇബി യഥാർത്ഥത്തിൽ സ്ഥിരത കൈവരിക്കാൻ കഴിയുമെങ്കിൽ ഇത് ഫ്ലക്സിന് വിപരീത അനുപാതമായിരിക്കും അതിനാൽ ഫ്ലക്സ് ∅ എന്നതിന് ആനുപാതികമാണ് അതായത് n ∅ ന് വിപരീത അനുപാതമാണ് അതായത് ഫീൽഡ് വൈദ്യുതി വർദ്ധിക്കുകയാണെങ്കിൽ n കുറയുന്നു തിരിച്ചും അതിനാൽ ഈ സ്വഭാവം ഒരു ചതുരാകൃതിയിലുള്ള ഹൈപ്പർബോള പോലെ കാണപ്പെടുന്നു അതിനാൽ ഇത് n rpm ആണ് ഇത് ഫീൽഡ് കറന്റ് ആണ് ഇതാണ് അതിന്റെ സ്വഭാവ സവിശേഷത അടുത്തത് അങ്ങനെ ഷണ്ട് ഫീൽഡിൽ പ്രതിരോധം വർദ്ധിക്കുന്നത് ഷണ്ട് ഫീൽഡ് കറന്റ് കുറയ്ക്കുന്നു അതിനാൽ ഫ്ലക്സ് കുറയുകയും വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കാരണം ഇതിന് വിപരീത അനുപാതമാണ് അതുപോലെ ഷണ്ട് ഫീൽഡ് സർക്യൂട്ടിലെ പ്രതിരോധം കുറയ്ക്കുന്നത് ഷണ്ട് ഫീൽഡ് കറന്റ് വർദ്ധിപ്പിക്കുന്നു അതിനാൽ ഫ്ലക്സ് വർദ്ധിപ്പിക്കുകയും വേഗത കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ഒരു രീതിയാണ് മറ്റൊന്ന് ആർമേച്ചർ റെസിസ്റ്ററുകളുടെ പ്രതിരോധ നിയന്ത്രണ രീതിയാണ് ഈ രീതിയിലുള്ള പ്രതിരോധം യഥാർത്ഥത്തിൽ ഇവിടെ ഈ ആർമേച്ചർ സർക്യൂട്ട് ഉപയോഗിച്ച് ശ്രേണീയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് R പ്രതിരോധം ഇവിടെ ചേർത്തിരിക്കുന്നു ആർമേച്ചർ പ്രതിരോധം ഞാൻ അർത്ഥമാക്കുന്നത് ഇത് ചെറിയ ra ഇവിടെ ഫീൽഡ് കറന്റ് ആണ് അവിടെ ഒന്നുമില്ല അതിനാൽ അർമേച്ചർ സർക്യൂട്ടിലെ പ്രതിരോധം വർദ്ധിപ്പിക്കുക എന്നാൽ ഇത് ബാക്ക് Emf ആണ് അതിനാൽ ഈ സർക്യൂട്ടിൽ kvl യഥാർത്ഥത്തിൽ പ്രയോഗിച്ചാൽ Eb V Ia R ra ra എന്നത് അർമേച്ചർ പ്രതിരോധമാണ് അതിനാൽ ആർമേച്ചർ സർക്യൂട്ട് I ra ലെ പ്രതിരോധം വർദ്ധിപ്പിക്കുക ഇത് യഥാർത്ഥത്തിൽ ഈ മൂലധനം R വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഡ്രോപ്പ് വർദ്ധിക്കുന്നു അതിനാൽ Eb EMF തിരികെ കാരണം ഈ സാഹചര്യത്തിൽ back EMF k ∅ n അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതിനാൽ ആ സാഹചര്യത്തിൽ ഫീൽഡ് കറന്റ് സ്ഥിരമായി നിലനിൽക്കുന്നു കാരണം ഈ വോൾട്ടേജ് v സ്ഥിരമായി തുടരുന്നു അതിനാൽ ആ സാഹചര്യത്തിൽ ∅ സ്ഥിരമാണ് അതിനാൽ Eb n കുറയുന്നതിനാൽ വേഗതയും കുറയും അതിനാൽ മിക്കവാറും രേഖീയമായി അത് വ്യത്യാസപ്പെടണം അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ രീതിക്ക് എന്ത് സംഭവിക്കും മോട്ടോറിന്റെ വേഗത കുറയ്ക്കാനേ കഴിയൂ യഥാർത്ഥത്തിൽ അത് വർദ്ധിപ്പിക്കാൻ കഴിയില്ല കാരണം ഈ ഇബി കുറയുന്നു യഥാർത്ഥത്തിൽ ഇത് സാധിക്കില്ല കാരണം r ചേർത്തു അതിനാൽ Eb കുറയുന്നു അതിനാൽ ഈ രീതി ഉപയോഗിച്ച് വേഗത കുറയ്ക്കാൻ മാത്രമേ കഴിയൂ അതിനാൽ ഈ സ്വഭാവം എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയും ഇപ്പോൾ രണ്ടാമത്തേത് DC സീരീസ് മോട്ടോറിന്റെ വേഗത നിയന്ത്രണമാണ് ഇപ്പോൾ ഇത് ഷണ്ടിനുള്ളതാണ് അതിനാൽ വാസ്തവത്തിൽ കൂടുതലായി ഒന്നും തന്നെ ഇല്ല യഥാർത്ഥത്തിൽ ഒരു പ്രതിരോധം R സ്ഥാപിക്കുക അതുമൂലം വൈദ്യുതിയുടെ ചാലകശക്തിയിൽ പതനം സംഭവിക്കാം ഫീൽഡ് വൈദ്യുതി സ്ഥിരമായി തുടരും അതിനാൽ ബാക്ക് ഇഎംഎഫ് കുറയും അങ്ങനെ സംഭവിക്കുമ്പോൾ വേഗതയും കുറയും അതിനാൽ ഈ രീതിക്ക് യഥാർത്ഥത്തിൽ മെഷീന്റെ വേഗത കുറയ്ക്കാൻ മാത്രമേ കഴിയൂ ഇപ്പോൾ അടുത്തത് ഒരു ഡിസി സീരീസ് മോട്ടോറിന്റെ വേഗത നിയന്ത്രണമാണ് ഡിസി സീരീസ് മോട്ടോർ യഥാർത്ഥത്തിൽ ഫീൽഡ് വിൻഡിംഗ് നമ്മൾ കണ്ടത് അർമേച്ചറുമായുള്ള പരമ്പരയിലാണ് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ t 1 വേരിയബിൾ പ്രതിരോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഫീൽഡ് വിൻഡിംഗിന് സമാന്തരമായി കാണുന്ന ഡൈവർറ്റർ എന്നാണ് ഞങ്ങൾ അതിനെ വിളിച്ചത് അതിനാൽ യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ച രീതി ഡിസി സർക്യൂട്ട് വിശകലനത്തിനുള്ള ലളിതമായ സമാന്തര സർക്യൂട്ട് ആണ് ഇത് ഒരു വേരിയബിളാണ് ഇത് കണക്റ്റുചെയ്തയുടൻ ഇതിന്റെ ഒരു ഭാഗം മൊത്തം അർമേച്ചർ വൈദ്യുതധാര ആണ് ഇത് മൊത്തം വൈദ്യുതധാര ∅ ആണ് അതേ വൈദ്യുതധാര ഇവിടെ പ്രവഹിക്കുന്നു വൈദ്യുതധാരയുടെ ഒരു ഭാഗം ഈ ∅ വഴി ഒഴുകും കൂടാതെ വൈദ്യുതധാരയുടെ ഒരു ഭാഗം ഫീൽഡ് വിൻഡിംഗിലൂടെ പ്രവഹിക്കും അതിനർത്ഥം ∅ ∅ Ia If I ∅ അതിനാൽ ഈ രീതിയിൽ ഒരു ഡൈവേർട്ടർ ചേർത്ത് യഥാർത്ഥത്തിൽ ഈ ഫീൽഡ് വൈദ്യുതി നിയന്ത്രിക്കാൻ കഴിയും ഡൈവർട്ടർ എന്നാൽ ഈ വേരിയബിൾ റെസിസ്റ്റൻസിലൂടെ വഴിതിരിച്ചുവിടുന്ന വൈദ്യുതധാരയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇത് വ്യത്യാസപ്പെടാം അതിനാൽ ഒരു സീരീസ് മോട്ടോറിന്റെ ഈ വേഗത നിയന്ത്രണം ഡൈവേർട്ടർ ഉപയോഗിച്ച് ചെയ്യാം അതിനാൽ സീരീസ് മോട്ടറിന്റെ വേഗത നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഈ രീതി എക്സിറ്റേഷൻ വൈദ്യുതി വ്യത്യാസപ്പെടുത്തി ഫീൽഡ് ഫ്ലക്സ് മാറ്റുക എന്നതാണ് കാരണം എക്സിറ്റേഷൻ വൈദ്യുതി എന്നാൽ ഫീൽഡ് വൈദ്യുതി എന്നാണ് അർത്ഥമാക്കുന്നത് ഇവിടെ ഈ ആവശ്യത്തിനായുള്ള റെഗുലേറ്റിംഗ് റെസിസ്റ്റൻസ് ഫീൽഡ് വിൻഡിംഗുമായി സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിനെ ഡൈവേർട്ടർ എന്ന് വിളിക്കുന്നു ഡൈവേർട്ടർ റെസിസ്റ്റൻസ് ക്രമീകരിക്കുന്നതിലൂടെ പ്രധാന വൈദ്യുതധാരകളുടെ ആവശ്യമുള്ള ഭാഗം വഴിതിരിച്ചുവിടുന്നതിലൂടെ ഫീൽഡ് കറന്റ് നിയന്ത്രിക്കാനാകും അതിനാൽ ഇതാണ് പ്രധാന കറന്റ് വൈദ്യുതധാരയുടെ ഒരു ഭാഗം ഇതിലൂടെ ഒഴുകാൻ കഴിയും റഫർ സമയം 0858 ഫീൽഡ് കറന്റ് യഥാർത്ഥത്തിൽ കുറയും ഇത് ഒരു വഴിയാണ് മറ്റൊരു മാർഗ്ഗം ഒരു ബദൽ ക്രമീകരണമെന്ന നിലയിൽ ടാപ്പുചെയ്ത ഫീൽഡ് നിയന്ത്രണം ഉപയോഗിച്ച് സീരീസ് ഫീൽഡ് ടേണുകളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നു ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും ഇതൊരു സീരീസ് ഫീൽഡാണ് ഈ ടാപ്പ് സ്വാഭാവികമായി കണക്ട് ചെയ്താൽ ടാപ്പ് ചെയ്യപ്പെടും ഇതാണ് പാത അത് പിന്തുടരും യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇത് A1 A2 ആണ് ഇതാണ് കൂടാതെ ഈ ടാപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നതിലൂടെ ഫീൽഡിലൂടെയുള്ള കറന്റ് നിയന്ത്രിക്കാനാകും അതിനാൽ ഇതിനെ ടാപ്പുചെയ്ത ഫീൽഡ് കൺട്രോൾ എന്ന് വിളിക്കുന്നു ഇതുവഴിയും സീരീസ് മോട്ടറിന്റെ വേഗത നിയന്ത്രിക്കാൻ കഴിയും ഗണിതത്തിന്റെ വിശദാംശങ്ങൾ ഒന്നാം വർഷ തലത്തിൽ പരിഗണിക്കുക ഇപ്പോൾ നമ്പർ 3 ഒരു പ്രതിരോധം അർമേച്ചർ സർക്യൂട്ടുമായി ശ്രേണിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ back Emf ൽ പ്രതിരോധം ക്രമീകരിച്ചുകൊണ്ട് മോട്ടറിന്റെ വേഗത കുറയ്ക്കാൻ കഴിയും യഥാർത്ഥത്തിൽ T1 പ്രതിരോധം ഫീൽഡ് വൈൻഡിംഗിനൊപ്പം പരമ്പരയിൽ ഇടുകയാണെങ്കിൽ കാരണം രണ്ടും പരമ്പരയിലാണ് അതായത് ഈ പ്രതിരോധമുള്ള സീരീസ് ഈ ആർമേച്ചർ ra ആണ് അതിനാൽ അർമേച്ചറും ഇതാണ് Rse ഇതാണ് R അതിനാൽ ബാക്ക് Emf ആ Eb ബാക്ക് Emf എന്നത് V ∅ R Rse ra ആയിരിക്കും ഈ Rse ആണ് ഇവിടെ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിലെ പ്രതിരോധം അതിനാൽ ആ സാഹചര്യത്തിൽ നമ്മൾ ഒരു പ്രതിരോധം R ചേർക്കുന്നു അതിനാൽ നമ്മൾ പ്രതിരോധം പരിഗണിക്കുകയാണെങ്കിൽ ഈ സാഹചര്യത്തിലും ആർമേച്ചറിന്റെ വേഗത R കൊണ്ട് കുറയ്ക്കാൻ കഴിയും കാരണം യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്താൽ ബാക്ക് Emf കുറയുന്നു അതിനാൽ ബാക്ക് Emf ന്റെ പ്രതിരോധം ക്രമീകരിക്കുന്നതിലൂടെ വൈദ്യുതിയുടെ പ്രവാഹപാതയിലെ പ്രതിരോധം വർദ്ധിപ്പിച്ച് വേഗത കുറയ്ക്കാൻ കഴിയും അതിനാൽ യഥാർത്ഥത്തിൽ പ്രതിരോധം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ബാക്ക് Emf കുറയും അതുവഴി വേഗത കുറയ്ക്കാൻ കഴിയും ഇത് ഷണ്ട് മോട്ടോറിലെ ആർമേച്ചർ നിയന്ത്രണം പോലെയാണ് അടുത്തത് ഡിസി മോട്ടോറിന്റെയോ ഷണ്ട് മോട്ടോറിന്റെയോ ഭ്രമണത്തിന്റെ വിപരീതമാണ് ഇത് ഷണ്ട് മോട്ടോറിന്റെ സംയുക്താവസ്ഥ ആണെന്ന് കരുതുക F1 F2 ഫീൽഡ് ടെർമിനൽ ആണെങ്കിൽ A1 A2 എന്നത് ആർമേച്ചർ ടെർമിനൽ ആണ് അതിനാൽ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ F1 F2 ഉം ഇപ്പോൾ ഇതും കാണിക്കുന്നു യഥാർത്ഥത്തിൽ ഫീൽഡ് ടെർമിനൽ പരസ്പരം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഈ രേഖാചിത്രത്തിൽ F1 F2 ബന്ധിപ്പിച്ചിരിക്കുന്നത് കാണുക എന്നാൽ ഇപ്പോൾ ഈ അംശം ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതായത് ദിശ അല്ലെങ്കിൽ ഇത് മുമ്പത്തേതാണ് ഫീൽഡിൽ F1 മുതൽ F2 വരെ വൈദ്യുതി ഒഴുകുന്നു ഈ സംയുക്താവസ്ഥ F2 ലേക്ക് F1 ലേക്ക് ഒഴുകുന്നു ടോർക്ക് ∅ ∅ ഫലത്തിന് ആനുപാതികമാണ് കൂടാതെ ∅ ഫീൽഡ് വൈദ്യുതിക്ക് ആനുപാതികമാണ് അങ്ങനെയാണെങ്കിൽ ഫീൽഡ് വൈൻഡിംഗ് വൈദ്യുതി വിപരീതമായി കാണപ്പെടുന്നു അതിനാൽ യന്ത്രം ഇവിടെ വിപരീത ദിശയിൽ കറങ്ങും അത് ഘടികാരദിശയിൽ കാണിക്കുന്നു അതിനാൽ ഇവിടെ ഫീൽഡ് വിൻഡിംഗ് കണക്ഷൻ field winding connection0 യഥാർത്ഥത്തിൽ പ്രതിലോമമാക്കുകയാണെങ്കിൽ അത് വിപരീത ദിശയിൽ കറങ്ങും ഇപ്പോൾ യഥാർത്ഥത്തിൽ പരസ്പരം മാറ്റുകയാണെങ്കിൽ ഫീൽഡ് F1 F2 ആയി നിലനിർത്തുക ഇപ്പോൾ ആർമേച്ചർ കണക്ഷൻ പരസ്പരം മാറ്റുക അതായത് ടെർമിനൽ ഇവിടെ ഞാൻ A2 ലേക്ക് കൊണ്ടുവന്നു 1 ഞാൻ A1 ലേക്ക് കൊണ്ടുവന്നു ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് സംയുക്താവസ്ഥകളും പരസ്പരം മാറ്റി ആ സാഹചര്യത്തിൽ A1 A2 വിപരീതമായി അർമേച്ചർ വൈദ്യുതിയുടെ ദിശ മാറി പക്ഷേ ഫീൽഡ് വൈദ്യുതിയുടെ ദിശ അതേപടി തുടരുന്നു അതിനാൽ യന്ത്രം എതിർദിശയിൽ കറങ്ങും അതിനാൽ അത് ഒന്നുകിൽ ഫീൽഡ് കണക്ഷൻ പരസ്പരം മാറ്റുക അല്ലെങ്കിൽ ആർമേച്ചർ കണക്ഷൻ പരസ്പരം മാറ്റുക അങ്ങനെ യന്ത്രം വിപരീത ദിശയിൽ കറങ്ങും എന്നാൽ യഥാർത്ഥത്തിൽ F1 F2 A1 A2 എന്നിവ പരസ്പരം മാറ്റുകയാണെങ്കിൽ രണ്ട് മെഷീനും ഒരേ ദിശയിൽ കറങ്ങും കാരണം ടോർക്ക് ∅∅ എന്നതിന്റെ ഫലത്തിന് ആനുപാതികമാണ് അങ്ങനെയെങ്കിൽ ∅ ∅യ്ക്ക് ആനുപാതികമാണ് അതിനാൽ ∅ യും അർമേച്ചറും കറന്റ് ദിശ മാറ്റുന്നു അതിനാൽ യന്ത്രം ഒരേ ദിശയിൽ കറങ്ങും അതായത് അത് അർഥമാക്കുന്നത് എന്തെന്നാൽ യഥാർത്ഥത്തിൽ ഇവയിലേതെങ്കിലും പരസ്പരം മാറ്റുക ആണെങ്കിൽ മെഷീൻ വിപരീത ദിശയിൽ കറങ്ങും എന്നാൽ രണ്ടും മാറ്റിയാൽ മെഷീൻ വിപരീത ദിശയിൽ കറങ്ങും യഥാർത്ഥത്തിൽ രണ്ടും മാറുകയാണെങ്കിൽ മെഷീൻ ഒരേ ദിശയിൽ കറങ്ങും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ടെർമിനൽ വോൾട്ടേജാണ് ഈ ടെർമിനൽ വോൾടേജ് നോക്കുക ആണെങ്കിൽ ഇത് ഇതാണ് എന്ന് അനുമാനിക്കാം യഥാർത്ഥത്തിൽ ഈ ടെർമിനൽ പരസ്പരം മാറ്റുകയാണെങ്കിൽ ഇവിടെ ഞാൻ ലേക്കും ലേക്കും ബന്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പരീക്ഷണശാലയിൽ മെഷീൻ ഒരേ ദിശയിൽ കറങ്ങും ഇത് എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും കാരണം ഫീൽഡ് കറന്റും കറന്റ് ആർമേച്ചർ കറന്റും പരസ്പരം മാറ്റുകയാണെങ്കിൽ രണ്ട് ദിശയും മാറും അതിനാൽ ആത്യന്തികമായി ടോർക്ക് ∅ ∅ ന് ആനുപാതികമാണ് രണ്ടും ∅ ∅ അതായത് സാധാരണയായി ടോർക്ക് ഫീൽഡ് കറന്റിന്റെയും ആർമേച്ചർ കറന്റിന്റെയും ഫലത്തിന് ആനുപാതികമാണ് അതിനാൽ രണ്ട് ദിശകളും മാറുന്നു അതിനാൽ യന്ത്രം ഒരേ ദിശയിൽ കറങ്ങും അതിനാൽ യഥാർത്ഥത്തിൽ ഈ ധ്രുവത കൈമാറ്റം ചെയ്താൽ അത് അതേ ദിശയിൽ കറങ്ങും യഥാർത്ഥത്തിൽ ഫീൽഡ് അല്ലെങ്കിൽ ഫീൽഡും ആർമേച്ചറും പരസ്പരം മാറ്റുകയാണെങ്കിൽ അത് ഒരേ ദിശയിൽ കറങ്ങും എന്നാൽ ഒന്നുകിൽ ഫീൽഡ് അല്ലെങ്കിൽ ആർമേച്ചർ പരസ്പരം മാറ്റുകയാണെങ്കിൽ അത് വിപരീത ദിശയിൽ കറങ്ങും ഇത് വളരെ ലളിതമായ കാര്യമാണ് ഇപ്പോൾ സീരീസ് മോട്ടോറിനായി ഇവിടെയും F1 F2 ഉണ്ട് A1 A2 ഉണ്ട് കൂടാതെ സീരീസ് മോട്ടോറിനായി ∅ ഫീൽഡ് കറന്റ് ഉണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ ദിശ മാറ്റുകയാണെങ്കിൽ ഈ ബിന്ദു F2 ലേക്ക് ബന്ധിപ്പിക്കുകയും ഈ ബിന്ദു F1 ലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ ഫീൽഡ് വൈദ്യുതി അല്ലെങ്കിൽ ആർമേച്ചർ വൈദ്യുതി ഫീൽഡ് വൈൻഡിംഗിലൂടെ കടന്നുപോകുന്നു അതായത് F1 മുതൽ F2 വരെ യഥാർത്ഥത്തിൽ പരസ്പരം മാറ്റുകയാണെങ്കിൽ ഇത് F2 ലേക്ക് F1 ലേക്ക് നീങ്ങും അതിനാൽ ഈ രീതിയിൽ ഇതിന്റെ ദിശ ഇവിടെ മാറ്റാം അത് ഇവിടെ ഘടികാരദിശയിൽ കാണിക്കുന്നു ദിശ എതിർ ഘടികാരദിശയിൽ കാണിക്കുന്നു കാരണം യഥാർത്ഥത്തിൽ ഫീൽഡ് വൈദ്യുതിയുടെ ദിശ മാറ്റുന്നു ഈ സാഹചര്യത്തിൽ അർമേച്ചർ വൈദ്യുതിയുടെ ദിശ യഥാർത്ഥത്തിൽ വിപരീതമാക്കുകയാണെങ്കിൽ ഫലം സമാനമായിരിക്കുo യഥാർത്ഥത്തിൽ പ്രതിലോമമാക്കുമ്പോൾ ഈ സാഹചര്യത്തിലും യന്ത്രം വിപരീത ദിശയിൽ കറങ്ങും എന്നാൽ രണ്ടും പ്രതിലോമമാക്കുകയാണെങ്കിൽ അത് ഒരേ ദിശയിൽ കറങ്ങും ഈ വിതരണ ലൈനിന്റെ ധ്രുവത പരസ്പരം മാറ്റുകയാണെങ്കിൽ മെഷീനും ഒരേ ദിശയിൽ കറങ്ങും അടുത്തത് ഒരു ഉദാഹരണമാണ് അതിനാൽ എഫ്1 Ω പ്രതിരോധം ഉള്ള ഒരു സീരീസ് മോട്ടോർ പരിഗണിക്കുക അതിന്റെ ടെർമിനലുകൾക്കിടയിൽ ഒരു ഫാൻ ഓടുന്നു ഇതിന് ടോർക്ക് വേഗതയുടെ വർഗ്ഗത്തിന് ആനുപാതികമാണ് അതായത് എൻ ന്റെ വർ ഗ്ഗത്തിന് ആനുപാതികമായ T 230 വോൾട്ടിൽ ഇത് 300 ആർപിഎമ്മിൽ പ്രവർത്തിക്കുകയും 15 ആമ്പിയർ എടുക്കുകയും ചെയ്യുന്നു വോൾട്ടേജ് വർദ്ധിപ്പിച്ച് ഫാനിന്റെ വേഗത 375 ആർപിഎം ആയി ഉയർത്തണം ഇതിന് ആവശ്യമായ വോൾട്ടേജും കറന്റും കണ്ടെത്തുക ഇതാണ് പ്രശ്നം അതിനാൽ 32 വോൾട്ടിൽ ഇത് 300 ആർപിഎമ്മിൽ പ്രവർത്തിക്കുകയും 15 ആമ്പിയർ എടുക്കുകയും ചെയ്യുന്നു വോൾട്ടേജ് വർദ്ധിപ്പിച്ച് ഫാനിന്റെ വേഗത 375 ആർപിഎം ആയി ഉയർത്തണം ഇതിന് ആവശ്യമായ വോൾട്ടേജും കറന്റും കണ്ടെത്തുക ടോർക്ക് യഥാർത്ഥത്തിൽ ∅ ∅ ന് ആനുപാതികമാണെന്ന് നമുക്കറിയാം ഇപ്പോൾ ശ്രേണിയിലെ മോട്ടോർ ∅ ∅ ന് ആനുപാതികമാണ് അതായത് ∅ ∅ ന് ആനുപാതികമാണെങ്കിൽ അതിനർത്ഥം ടോർക്ക് ആർമേച്ചർ വൈദ്യുതിയുടെ വർഗ്ഗത്തിന് ആനുപാതികമാണ് ഇപ്പോൾ ടോർക്ക് 1 വർഗ്ഗത്തിന് ആനുപാതികമാണ് 1 പ്രാരംഭ വേഗതയും ∅1 പ്രാരംഭ വൈദ്യുതധാരയുമാണെങ്കിൽ n2 ∅2 എന്നിവ മോട്ടോറിന്റെ പ്രവർത്തനത്തിന്റെ പുതിയ അവസ്ഥയിൽ വേഗതയും വൈദ്യുതധാരയും ആണെങ്കിൽ നമുക്ക് എഴുതാം കാരണം ഇത് n വർഗ്ഗത്തിന് T ആനുപാതികമാണ് അതിനാൽ ആദ്യ സന്ദർഭത്തിൽ അത് T1 ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ ടോർക്ക് T2 ആണ് അപ്പോൾ അത് T1 T2 ∅1 ∅2 വർഗ്ഗം ആയിരിക്കും കാരണം ടോർക്ക് ∅ വർഗ്ഗത്തിന് ആനുപാതികമാണ് കൂടാതെ ടോർക്ക് n വർഗ്ഗത്തിന് ആനുപാതികമാണെന്നും നൽകിയിരിക്കുന്നു അതായത് T1 T2 ∅1 ∅2 വർഗ്ഗം n1 n2 വർഗ്ഗം ഇത് സമവാക്യം 3 ആണ് ഇപ്പോൾ 1 എന്നത് 300 rpm n2 375 rpm ∅ 1 15 ആമ്പിയർ എന്നിവയ്ക്ക് തുല്യമാണ് ഈ 2 സമവാക്യങ്ങളിൽ നിന്നാണ് ഇത് നൽകിയിരിക്കുന്നത് ∅2 18 75 ആമ്പിയർ ആയിരിക്കും അതിനാൽ ബാക്ക് Emf Eb 1 230 15 ആയിരിക്കും ആദ്യ ഘട്ട കറന്റ് അതിനാൽ 15 1 അതിനാൽ 215 വോൾട്ടും 1 എന്നത് 300 ആംപിയറും Rse ra ഉം ആണ് നമ്മൾ ആകെ 1 Ω Ω ആണെന്ന് അനുമാനിക്കാം അടുത്തത് രണ്ടാമത്തെ കേസിൽ ∅2 18 75 ആമ്പിയർ ആണ് Rse ra എന്നത് 1 Ω ആണ് ഇത് നൽകിയിരിക്കുന്നു ഇത് Rse ആണ് ഇത് n2 ആണ് 375 rpm അതിനാൽ Eb 2 V 18 70 75 ra Rs 1 അതിനാൽ ഇതിന് V 18 75 ലഭിക്കും എന്നാൽ V നമ്മൾ നിർണ്ണയിക്കണം ഫ്ളക്സ് വേഗതയ്ക്ക് ബാക്ക് എംഎഫ് ആനുപാതികമാണെന്ന് നമുക്കറിയാം അതിനാൽ Eb 1 Eb 2 ആദ്യ വ്യവസ്ഥയ്ക്കും രണ്ടാമത്തെ വ്യവസ്ഥയ്ക്കും യഥാർത്ഥത്തിൽ ∅1 1 ∅2 n2 എഴുതാൻ കഴിയും കാരണം മെഷീൻ സീരീസ് മോട്ടോറിലെ ആർമേച്ചർ കറന്റിന് ഫ്ലക്സ് ആനുപാതികമാണ് അവിടെ ∅1 ∅2 അടിസ്ഥാനപരമായി ∅1 I 2 അതിനാൽ ഇവിടെ പകരം വയ്ക്കുക അത് ∅1 1 ∅2 n2 ആയിരിക്കും അതിനാൽ ഈ മൂല്യങ്ങളെല്ലാം മാറ്റിസ്ഥാപിക്കുക കാരണം ഈ മൂല്യങ്ങളെല്ലാം നമുക്ക് അറിയാം ഇത് Eb 1 Eb 2 ആണ് Eb 1 എന്നത് 215 വോൾട്ട് ആണ് Eb 2 V 18 75 ആണ് അതിനാൽ ഇതിൽ നിന്ന് യഥാർത്ഥത്തിൽ പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് V 350 65 volt ആയി ലഭിക്കും അടുത്തത് മറ്റൊരു ഉദാഹരണമാണ് അതിനാൽ ഇതാണ് ഉത്തരം അതിനാൽ ഇതൊരു ലളിതമായ പ്രശ്നമാണ് ബന്ധങ്ങൾ വിരൽത്തുമ്പിൽ സൂക്ഷിക്കുക അതിനാൽ എല്ലാം പരിഹരിക്കപ്പെടും ഇനി അടുത്തത് നിസ്സാരമായ ഫീൽഡ് റെസിസ്റ്റൻസ് ഉള്ള ഒരു സീരീസ് മോട്ടോറാണ് ഒരു നിശ്ചിത ലോഡിൽ ഓടുമ്പോൾ 500 വോൾട്ടിൽ 40 ആമ്പിയർ എടുക്കും ലോഡ് ടോർക്ക് വേഗതയുടെ ത്രിവർഗ്ഗന്റെ വ്യത്യാസമാണെങ്കിൽ ടോർക്ക് n3 ന് ആനുപാതികമാണ് അങ്ങനെയാണെങ്കിൽ വേഗത അതിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ 8 ആയി കുറയ്ക്കുന്നതിന് ആവശ്യമായ പ്രതിരോധം കണ്ടെത്തുക അതിനാൽ തുടക്കത്തിൽ ഇത് n ആയിരുന്നെങ്കിൽ അത് 0 അതിനാൽ ആവശ്യമായ പ്രതിരോധം കണ്ടെത്തേണ്ടതുണ്ട് So it will be what actually call that second case the speed is 80 of the first casEbecause we are reducing the speed So 1 by n2will be 1 by 0 8 I mean I mean it is something like this it is first case if first case if it is n first case if it is n then second case it is 0 8 n therefore n by 0 അതിനാൽ സീരീസ് മോട്ടോറിനായി ടോർക്ക് അർമേച്ചർ വൈദ്യുതിയുടെ വർഗ്ഗത്തിന് ആനുപാതികമാണ് അത് n3 ന് ആനുപാതികമായി T നൽകുന്നു അതായത് നമുക്ക് T1 T2 ∅1∅2 വർഗം 1 n2 മുഴുവൻ ത്രിവർഗം ആദ്യ ഘട്ടം രണ്ടാമത്തെ ഘട്ടം ഇപ്പോൾ ∅1 എന്നത് 40 ആമ്പിയർ V 500 വോൾട്ട് 1 n2 ന് 80 എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത് അതിനാൽ ഇത് രണ്ടാമത്തെ ഘട്ടംആയിരിക്കും വേഗത ആദ്യ ഘട്ടത്തിന്റെ 80 ആണ് നമ്മൾ വേഗത കുറയ്ക്കുകയാണ് 8 ആയിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇതുപോലെയാണ് ആദ്യത്തെ കേസ് n ആണെങ്കിൽ രണ്ടാമത്തെ കേസ് അത് 0 8 n ആണ് അതിനാൽ ഇവിടെ എഴുതിയത് n 0 8 n 1 0 8 അങ്ങനെയാണെങ്കില് അതിനർത്ഥം ഇവയാണ് നൽകിയിരിക്കുന്ന ഡാറ്റ അതിനാൽ 40 സ്ക്വയർ ∅ സ്ക്വയർ 1 0 8 ക്യൂബ് അതിൽ നിന്ന് നമുക്ക് ∅ 2 28 62 ആമ്പിയർ ലഭിക്കും ഇപ്പോൾ നമുക്കറിയാം Eb 1 500 volt ആദ്യ അവസ്ഥ നൽകിയിരിക്കുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ച് പ്രതിരോധം R ചേർക്കുന്നു അതിനാൽ 500 ∅2 xr മുമ്പത്തേതിന് സമാനമാണ് 5 1 1 ∅2 n2 ∅1 1 ∅2 n2 അത് മുമ്പത്തേതിന് സമാനമാണ് അതായത് 40 1 ഇവിടെ ഞാൻ അർത്ഥമാക്കുന്നത് ∅1 എന്നത് 40 ആണ് ∅2 28 65 ആണ് 40 28 62 1 n2 യഥാർത്ഥത്തിൽ 1 0 അതിനാൽ ഇത് പരിഹരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ R 7 47 Ω ലഭിക്കും ഇതാണ് ഉത്തരം ഇത്രയധികം പ്രതിരോധം ചേർക്കേണ്ടതുണ്ട് അതിനാൽ അടുത്തത് എ 250 വോൾട്ട് ഷണ്ട് മോട്ടോറിന് ra 0 5 Ω ഉം Rf ഫീൽഡ് റെസിസ്റ്റൻസ് 250 Ω ഉം ഉണ്ട് ഒരു ലോഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ സ്ഥിരമായ ടോർക്ക് 30 ആമ്പിയർ എടുത്ത് 500 ആർപിഎമ്മിൽ പ്രവർത്തിക്കുന്നു മോട്ടോറിന്റെ വേഗത 750 ആർപിഎമ്മിലേക്ക് ഉയർത്താൻ താല്പര്യപ്പെടുന്നു അതിനാൽ 500 മുതൽ 750 വരെ യഥാർത്ഥത്തിൽ വേഗത ഉയർത്തണം ഷണ്ട് ഫീൽഡ് സർക്യൂട്ടിൽ എന്ത് പ്രതിരോധം ചേർക്കണം അതിനാൽ തുടക്കത്തിൽ സർക്യൂട്ടിൽ 1 പ്രതിരോധം ഉണ്ടായിരുന്നു അതിനാൽ ra എന്നത് 0 5 ആണ് Rf 250 ∅1 ആണ് 30 ആമ്പിയർ n2 500 rpm എല്ലാം കൊടുത്തിരിക്കുന്നു ലോഡിന്റെ ടോർക്ക് സ്ഥിരമാണെന്ന് നൽകിയിരിക്കുന്നു അതിനാൽ ടോർക്ക് ഒരു സ്ഥിരാങ്കമാണ് ആദ്യ സന്ദർഭത്തിൽ ബാക്ക് emf Eb 1 എന്നത് V ∅1ra ആയിരിക്കും അതിനാൽ V 250 ∅ 130 ra 0 5 ആദ്യ സന്ദർഭത്തിൽ 230 വോൾട്ട് ഇപ്പോൾ രണ്ടാമത്തെ സാഹചര്യത്തിൽ നമുക്ക് വേഗത 750 ആർപിഎമ്മിലേക്ക് ഉയർത്താം അതിനാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് R ചേർത്തിട്ടുണ്ട് എന്താണ് R എന്ന് നമ്മൾ കണ്ടെത്തണം 750 ആർപിഎമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അർമേച്ചറിലൂടെയുള്ള വൈദ്യുതി ∅2 ആയിരിക്കട്ടെ ആ സമയത്ത് അത് ∅2 ആണ് അങ്ങനെ അതായത് Eb 2 V ∅2 ra അതിനാൽ ra എന്നത് 0 5 Ω ആണ് അതിനാൽ Eb 2 250 0 5 ∅2 ഇതാണ് രണ്ടാമത്തെ വ്യവസ്ഥയുടെ സർക്യൂട്ട് രേഖാചിത്രം ഇപ്പോൾ ബാക്ക് Emf ∅ n ന് ആനുപാതികമാണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ മുമ്പത്തെ പോലെ തന്നെ നമുക്ക് Eb 1 Eb 2 ∅1 1 ∅2 n2 എന്ന് എഴുതാം അതിനാൽ യഥാർത്ഥത്തിൽ n1 500 rpm ആണെങ്കിൽ അത് ആദ്യ വ്യവസ്ഥയും n2 എന്നത് 750 ഉം ആണ് അതിനാൽ 500 750 ∅1 ∅2 അതായത് 2 ∅1 3 ∅ 2 ഇത് സമവാക്യം 3 ആണ് ഇപ്പോൾ ടോർക്ക് ∅ ∅ ന് ആനുപാതികമായി നൽകിയിരിക്കുന്നു എന്നാൽ രണ്ട് സാഹചര്യങ്ങളിലും ടോർക്ക് സ്ഥിരമായി തുടരുന്നു അതിനാൽ T1 T2 അതിനർത്ഥം വേണ്ടി അതായത് ∅1 I 1 ∅ 1 ∅2 ∅2 കാരണം ടോർക്ക് സ്ഥിരമായി തുടരുന്നു അതിനാൽ ആദ്യത്തെ അവസ്ഥ ∅1 ∅1 ആണെങ്കിൽ രണ്ടാമത്തെ അവസ്ഥ അത് ∅2 ∅2 ആണ് അതിൽ നിന്ന് നമുക്ക് ∅1 ∅ 2 ∅2 I 1 ∅2 30 ലഭിക്കും കാരണം ∅ 1 30 ആമ്പിയർ അതിനാൽ 1 2 3 4 എന്ന സമവാക്യത്തിൽ നിന്ന് അതിനാൽ 1 2 3 4 എന്ന സമവാക്യത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇത് ഇത് ഇറ്റാലിക് ആയിരിക്കും ഇത് യഥാർത്ഥത്തിൽ സമവാക്യം 1 ആണ് ഇത് സമവാക്യം n2 ആണ് ഇത് സമവാക്യം 3 ആണ് ഇത് സമവാക്യം 4 ആണ് ഈ വഴി അതിനാൽ യഥാർത്ഥത്തിൽ 1 2 3 4 എന്നീ സമവാക്യങ്ങളിൽ നിന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവയെല്ലാം മാറ്റിസ്ഥാപിക്കുക അതിനാൽ യഥാർത്ഥത്തിൽ 235 250 0 5 ∅ ∅ 2 2 3 ∅2 30 ലഭിക്കും അതിനാൽ ഈ ക്വാഡ്രാറ്റിക് സമവാക്യം പരിഹരിക്കുകയാണെങ്കിൽ പരിഹാരം പ്രായോഗികമാകണമെന്നില്ല ഉത്തരം ∅ 2 46 ആമ്പിയർ ആയിരിക്കും അതിനാൽ കുറച്ച് പരിശീലനം ആവശ്യമാണ് അതിനാൽ ഇപ്പോൾ ചിത്രം a യിൽ നിന്ന് നമുക്ക് ∅ 1 25051 ആമ്പിയർ ലഭിക്കുന്നു കാരണം ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് 250 വോൾട്ടും ഇത് 250 ഉം ആണ് അതിനാൽ ആദ്യ സന്ദർഭത്തിൽ ഫീൽഡ് കറന്റ് 1 ആമ്പിയർ ആയിരുന്നു അതായത് 250 250 രണ്ടാമത്തെ കേസിൽ ചിത്രത്തിൽ a യിൽ നിന്ന് ഫീൽഡ് കറന്റ് ∅1 250 251 ആമ്പിയർ ലഭിക്കുന്നു എന്നാൽ രണ്ടാമത്തെ കേസ് ∅2 250 R f Rf ആയിരിക്കും അതിനാൽ 250 R 250 ആമ്പിയർ ഇപ്പോൾ സമവാക്യം 4 നോക്കുക ഇവിടെ ∅1 ∅ 1 ∅2 ∅ 2 അതിനാൽ ഫ്ലക്സ് ഫീൽഡ് വൈദ്യുതിക്ക് ആനുപാതികമാണെന്ന് നമുക്കറിയാം അതിനാൽ നമുക്ക് ∅1 ∅ 2 ∅1 ∅ 2 ∅2 ∅ 1 ആക്കാം ∅2 നെ 46 ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചാൽ നമുക്ക് ∅1 എന്നത് 30 ആയി ലഭിക്കും അതിനാൽ 1 ∅ 2 46 30 എന്നാൽ ∅ 2 250 R 250 അതിനാൽ ഇത് 46 30 ആണ് ഇത് 30 46 ആയിരിക്കും R കണക്കാക്കുന്നതിന് ഇത് പരിഹരിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ R 134 Ω ലഭിക്കും ഇതാണ് ഉത്തരം അടുത്തത് ഉദാഹരണം 6 230 വോൾട്ട് ഷണ്ട് മോട്ടോറിന് 410 ആർമേച്ചർ കണ്ടക്ടറുകൾ ഉണ്ട് പൂർണ്ണ ലോഡിൽ 41 ആമ്പിയർ എടുക്കും ra 0 1 Ω ഫീൽഡ് റെസിസ്റ്റൻസ് Rf 32 Ω ഓരോ ബ്രഷിനുമുള്ള കോൺടാക്റ്റ് ഡ്രോപ്പ് 1 വോൾട്ട് എന്നിങ്ങനെ നൽകിയാൽ ഓരോ ധ്രുവത്തിലും ഫ്ലക്സ് 0 05 വെബർ ആണ് അതിനാൽ 2 ബ്രഷുകൾ ഉണ്ടാകും പൊതുവേ ഇത് മൊത്തം 2 വോൾട്ട് ആയിരിക്കും പൂർണ്ണ ലോഡിൽ മോട്ടറിന്റെ വേഗത നിർണ്ണയിക്കാൻ ഓരോ ബ്രഷിനും ഇത് നൽകിയിരിക്കുന്നു ഇപ്പോൾ ലാപ് കണക്റ്റഡ് പോൾ 6 നൽകിയിരിക്കുന്നു അതിനാൽ ലാപ് കണക്ഷന്റെ സമാന്തര പാത A P 6 ആയിരിക്കും അതിനാൽ Z 410 നൽകിയിരിക്കുന്നു അതായത് കണ്ടക്ടറുടെ എണ്ണം ഈ നിലവിലെ I L ന് 41 ആമ്പിയർ നൽകിയിരിക്കുന്നു ഫ്ലക്സ് 0 05 വെബർ ra ആർമേച്ചർ റെസിസ്റ്റൻസ് 0 1 Ω എന്നിവ നൽകിയിരിക്കുന്നു ടെർമിനൽ വോൾട്ടേജ് V 230 വോൾട്ടായി നൽകിയിരിക്കുന്നു Rf 230 Ω ആയി നൽകിയിരിക്കുന്നു അതിനാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇവിടെ ഇട്ടു 2 ബ്രഷുകൾ ഉണ്ട് അതിനാൽ ഡെൽറ്റ ഇ 1 2 ആയിരിക്കും അതിനാൽ 2 വോൾട്ട് ആദ്യം യഥാർത്ഥത്തിൽ ഫീൽഡ് കറന്റ് കണ്ടെത്തുക ∅ V Rf അതായത് 230 230 1 ആമ്പിയർ ഇപ്പോൾ ആർമേച്ചർ കറന്റ് ഈ ∅ ഈ ഘട്ടത്തിൽ ഇവിടെ kcl പ്രയോഗിക്കുക അതിനാൽ ∅ I L ∅ ആയിരിക്കും അതിനാൽ 41 1 അതിനാൽ 40 ആമ്പിയർ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ബ്രഷ് കോൺടാക്റ്റ് ഡ്രോപ്പ് ഓരോ ബ്രഷിനും 1 വോൾട്ട് നൽകുന്നു അതിനാൽ Eb V ∅ ra അറിയുക എന്നാൽ ഈ ഡ്രോപ്പ് കുറയ്ക്കേണ്ടതുണ്ട് delta E ഒരു ചെറിയ പിശക് ഉണ്ടാകരുത് എന്നാൽ ഡെൽറ്റ E 2 വോൾട്ട് ആയിരിക്കും കാരണം ഓരോ ബ്രഷിനും 1 വോൾട്ട് അതുകൊണ്ടാണ് 1 2 എന്ന് എഴുതുന്നത് കഴ്സർ നോക്കൂ 1 2 വോൾട്ട് അതായത് 230 40 0 1 2 ഇപ്പോൾ Eb 224 വോൾട്ട് എന്നും നമുക്കറിയാം കൂടാതെ Eb ∅ Z n 60 P A അങ്ങനെയായിരിക്കും ∅ എന്നത് 0 05 വെബർ ആണ് Z എന്നത് 410 x n 60 ആണ് പി എന്നത് ലാപ് കണക്ഷനാണ് അതിനാൽ A P അങ്ങനെ 6 6 224 അതിനാൽ n 655 6 rpm ഇതാണ് ഉത്തരം ഈ പ്രശ്നങ്ങൾ വളരെ ലളിതമായ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പാഠ്യക്രമത്തെക്കുറിച്ച് അൽപ്പം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഈ പാഠ്യക്രമം പൂർത്തിയാകും അതിനാൽ പ്രത്യേകിച്ച് ഒന്നാം വർഷ തലത്തിൽ ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇൻഡക്ഷൻ മെഷീനും ഡിസി മോട്ടോറും ഞാൻ ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആദ്യ വർഷമാകാം അല്ലെങ്കിൽ ആർക്കും ഈ കോഴ്സ് എടുക്കാം എന്നതിനാൽ ഞാൻ വിശദാംശങ്ങളിലൂടെ കടന്നുപോയിട്ടില്ല എന്നാൽ ഇത് അടിസ്ഥാനപരമായ കാര്യം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒന്നും വിശദമായി അല്ല